കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവിധ ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസങ്ങളും ഫ്രാക്ചർ മെക്കാനിസങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തി ഇവയിൽ ഒരു ഫാറ്റിഗ് ക്രാക്ക് ഇൻറെ വളർച്ചയുടെ ഒരു മാതൃക നമ്മൾ വിശദമായി കണ്ടു ഒരു വിദ്യാർത്ഥി എന്റെ അടുത്ത് വന്ന് ചോദിച്ചു വിള്ളൽ തുടക്കത്തിൽ തന്നെ 45 ഡിഗ്രിയിൽ പ്രചരിക്കുന്നുണ്ടോ നിങ്ങൾ അത്തരമൊരു നിഗമനത്തിലെത്തരുത്

പ്രഭാഷണവുമായി മുന്നോട്ടുപോകുന്നതിനുമുമ്പ് ഞാൻ ഈ സംശയം വ്യക്തമാക്കാം എന്ന് കരുതുന്നു ഫാറ്റിഗ് വിള്ളൽ വളർച്ചാ മാതൃകയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കാം എന്താണ് പരാമർശിച്ചത് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള വളരെ ഉയർന്ന സ്ട്രെസ് കാരണം നമുക്ക് പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കും പ്ലാസ്റ്റിക് രൂപഭേദത്തിന്റെ പങ്ക് എന്താണ് പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുമ്പോൾ അത് ഷിയർ സ്ട്രെസ് മൂലമുള്ള ആറ്റോമിക് പ്ലെയിനിൻറെ സ്ലിപ്പ് മാത്രമാണ് ലളിതമായ ടെൻഷൻ ടെസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കപ്പ് കോൺ ഫ്രാക്ചർ ഉണ്ടെന്ന് നമ്മൾ വിശദമായി കണ്ടു നമുക്ക് ഒരു ഷിയർ ലിപ്പ് ഉണ്ട് ഇത് 45 ഡിഗ്രിയിൽ സംഭവിക്കുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതാണ് ഇതെല്ലാം മൈക്രോസ്കോപ്പിക് സ്കെയിലിൽ സംഭവിക്കുന്നു ആശയപരമായി മനസ്സിലാക്കുന്നതിന് ഇത് വളരെ വലുതാക്കുന്നു എനിക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരു സ്ലിപ്പ് നടക്കുന്നു ഒരു ഫാറ്റിഗ് വിള്ളൽ എങ്ങനെ വളരുന്നു എന്നതിന്റെ ഒരു ആനിമേഷൻ മാതൃക നമുക്കുണ്ട് മാത്രമല്ല ഇത് വിള്ളലിന്റെ മുന്നേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള പ്രക്രിയകളെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത് അതിനാൽ ഇവിടെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പിക് മോഡൽ ഒരു മാക്രോസ്കോപ്പിക് രൂപത്തിൽ ബണ്ടിൽ ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇവിടെ കാണുന്നത് മൈക്രോസ്കോപ്പിക് തലത്തിലാണ് സംഭവിക്കുന്നത് ഏകദേശം 2 മൈക്രോൺ ഇടവേളയിൽ നമുക്ക് 4 അല്ലെങ്കിൽ 5 സ്ട്രൈയേഷൻസ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇത് സബ്മൈക്രോൺ ലെവലാണ് പക്ഷേ ഇത് വളരെ വലുതാണ് ഉയർന്ന മാഗ്നിഫിക്കേഷനിൽ ചിത്രം കാണുമ്പോൾ നിങ്ങൾ നോക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ നിങ്ങൾ കാണും എനിക്ക് സ്ലിപ്പ് ഉള്ളപ്പോൾ അത് 45 ഡിഗ്രിയിൽ ചരിഞ്ഞ വരയായി കാണിക്കുന്നു

നമുക്ക് വിള്ളൽ ലോഡുചെയ്യുമ്പോൾ അത് മൂർച്ചയില്ലാത്തതാകുന്നു അൺലോഡുചെയ്യുമ്പോൾ ഇത് മൂർച്ചയുള്ളതാകുന്നു അതിനാൽ ഈ ഓപ്പണിംഗും ക്ലോസിംഗും മെറ്റീരിയലിൽ അടയാളം ഇടുന്നു അത് സ്ട്രൈയേഷൻസ് ആയി ദൃശ്യമാകുന്നു ഇതെല്ലാം സൂക്ഷ്മതലത്തിലാണ് സംഭവിക്കുന്നത് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം വിള്ളൽ സ്വയം നേർരേഖയിൽ മാത്രം മുന്നേറുന്നു പക്ഷേ വിള്ളൽ എങ്ങനെ മുന്നേറുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ നോക്കാനുള്ള സാധ്യത എന്തായിരിക്കാം അതാണ് നമ്മൾ ശരിക്കും ലക്ഷ്യമിടുന്നത് അത് നിങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഈ വരിയിൽ നിങ്ങൾ വിള്ളൽ പുരോഗതി ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട് എന്നാൽ ഇത് എങ്ങനെയാണ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മുന്നേറുന്നത് നമുക്ക് ഒരു മാതൃകയുണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ മെറ്റീരിയൽ മനസ്സിലാക്കുമ്പോൾ പുതിയ മോഡലുകളുടെ വികസനവും നമ്മൾ കണ്ടെത്തുന്നു ഈ മോഡൽ ഫാറ്റിഗ്ൻറെ ഓരോ ചക്രത്തിലും വിള്ളലിന്റെ വർദ്ധനവ് ഉണ്ടെന്നും മൈക്രോ ഘടനയിൽ അത് ഒരു മുദ്ര സൃഷ്ടിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കിത്തരുന്നു അതിനാൽ ഈ മോഡൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും വിള്ളൽ തുടക്കത്തിൽ 45 ഡിഗ്രിയിൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൽ പ്രചരിപ്പിക്കുമെന്ന് കരുതരുത് വാസ്തവത്തിൽ കോഴ്സിന്റെ അവസാനത്തിൽ നമ്മൾ നിരവധി സിദ്ധാന്തങ്ങൾ പരിശോധിക്കും അത് നമുക്ക് തന്നിരിക്കുന്ന ലോഡിംഗ് അവസ്ഥയ്ക്കായി ഏത് ആംഗിളിൽ വിള്ളൽ പ്രചരിപ്പിക്കുംഎന്ന് കാട്ടിത്തരുന്നു അതാണ് മാക്രോസ്കോപ്പിക് കണക്കുകൂട്ടൽ ഒരു മൈക്രോസ്കോപ്പിക് തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളും ആശയക്കുഴപ്പത്തിലാക്കരുത് കാരണം നിങ്ങൾ എല്ലാവരും എഞ്ചിനീയർമാരാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിൽ പരിശീലനം നേടിയവരാണ് വിഷ്വലൈസേഷനായി വളരെയധികം ഊന്നൽ നൽകുന്നു അതിനാൽ നിങ്ങൾ അത് നോക്കേണ്ടതുണ്ട് ഇത് ഒരു മൈക്രോസ്കോപ്പിക് തലത്തിലാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു ലോഡിംഗും അൺലോഡിംഗും ഉള്ളപ്പോൾ വിള്ളൽ ക്രമാതീതമായി മുന്നേറുന്നതായി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുന്നതിനാൽ മൂർച്ച നഷ്ടപ്പെടുന്നതായി കാണാം അതാണ് ഈ ആനിമേഷനിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് ക്രാക്ക് ടിപ്പ് മൂർച്ച നഷ്ടപ്പെടുന്നു തുടർന്ന് അത് മൂർച്ചയുള്ളതായിത്തീരുന്നു ഇത് ആവർത്തിച്ച് സംഭവിക്കുന്നു ഈ വരിയിൽ വിള്ളൽ മുന്നേറുന്നു ഇത് 45 ഡിഗ്രിയിൽ പോകുന്നില്ല ആ ധാരണ കൊണ്ട് നടക്കരുത് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ്നെപ്പറ്റി ചർച്ച തുടരാം കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രെസ് കോറോഷൻ വഴി വിള്ളൽ വളരുന്നതായി നമ്മൾ കണ്ടു ഇത് ഒരു ഇന്റർ ഗ്രാനുലാർ ക്രാക്ക് വളർച്ചയാണ് അതാണ് ഈ മൈക്രോഗ്രാഫിൽ നിങ്ങൾ കാണുന്നത് ഇത് 3 മെക്കാനിസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മൂലമാകാം ഒന്ന് ആക്ടീവ് പാത്ത് ഡിസൊലൂഷൻ രണ്ടാമത്തെ സാധ്യത ഹൈഡ്രജൻ എംബ്രിട്ടിൽമെൻറ് മൂന്നാമത്തെ സാധ്യത ഫിലിം ഇൻഡ്യൂസ്ഡ് ക്ലീവേജ് ഈ സംവിധാനങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി നാം കാണും ഇവ വീണ്ടും വിവരണാത്മകമാണ് അതിനാൽ നിങ്ങൾ ഈ പോയിന്റുകളുടെ ശരിയായ കുറിപ്പുകൾ എടുക്കേണ്ടതുണ്ട് ആക്ടീവ് പാത്ത് ഡിസൊലൂഷൻ ഇവിടെ എന്ത് സംഭവിക്കും ആക്ടീവ് പാത്ത് ഡിസൊലൂഷന്റെ കാര്യത്തിൽ പ്രസിപ്പിറ്റേഷൻ മൂലം ഗ്രേൻ അതിരുകൾ നശിപ്പിക്കപ്പെടുന്നു ഇതാണ് സംവിധാനം ശരിക്കും സംഭവിക്കുന്നത് പ്രയോഗിച്ച സ്ട്രെസ് പ്രധാനമായും വിള്ളലുകൾ തുറക്കുന്നു ഇത് വിള്ളൽ ടിപ്പിൽ നിന്ന് മാറി എളുപ്പത്തിൽ കൊറോഷൻ ഉൽപ്പന്നങ്ങൾ വ്യാപിപ്പിക്കാൻ അനുവദിക്കുന്നു അതുവഴി ക്രാക്ക് ടിപ്പ് കൂടുതൽ ദുർബലപ്പെടുത്തുന്നു ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ഫാറ്റിഗ്ന്റെ കാര്യത്തിൽ ആവർത്തിച്ചുള്ള ലോഡിംഗ് വിള്ളൽ മുന്നേറുന്നതിന് ഇടയാക്കുന്നു സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിന്റെ കാര്യത്തിൽ ആക്ടീവ് പാത്ത് ഡിസൊലൂഷൻ വഴി ദ്രവിക്കൽ മൂലം വിള്ളൽ വീഴുന്നു വിനാശകരമായ പരിതസ്ഥിതിയും നിലനിൽക്കുന്ന സ്ട്രെസ് ഉം ചേരുമ്പോൾ വിള്ളൽ മുന്നേറുന്നു ചിലതരം വസ്തുക്കൾ ഈ പ്രക്രിയ മൂലം ബാധിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നു ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈ രീതിയിൽ നശിപ്പിക്കപ്പെടുന്നു ഇതിൽ എന്ത് സംഭവിക്കും പ്രസിപ്പിറ്റേഷൻ കാരണം ഗ്രേൻ അതിരുകൾ ദുർബലമാകുന്നത് നാം കണ്ടു ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കാര്യത്തിൽ ഗ്രേൻ അതിർത്തിയിൽ ക്രോമിയം കാർബൈഡിന്റെ പ്രസിപ്പിറ്റേഷൻ കാണാം നിങ്ങൾ എസ്സിസിയിൽ കണ്ടെത്തുന്നത് വിള്ളൽ ഗ്രേൻ അതിർത്തിയിൽ ഒരു സിഗ്സാഗ് രീതിയിൽ മുന്നേറുന്നു മൈക്രോസ്കോപ്പിക് തലത്തിൽ സിഗ്സാഗ് ഫാഷനായി നിങ്ങൾ അത് കാണും ഒരു മാക്രോസ്കോപ്പിക് തലത്തിൽ ഇത് മറ്റൊരു ചിത്രം നൽകിയേക്കാം അതിനാൽ മൈക്രോസ്കോപ്പിക് തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും ഒരു മാക്രോസ്കോപ്പിക് തലത്തിൽ കാണുന്നതും ആശയക്കുഴപ്പത്തിന് ഇടയാകരുത് നിങ്ങൾ എല്ലാവരും എഞ്ചിനീയർമാരായി പരിശീലനം നേടിയതിനാൽ നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയും ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ് അടുത്ത പ്രക്രിയ ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ് ആണ് ഇത് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് കാരണം വിള്ളലുകൾ വളരുന്നതിനുള്ള മറ്റൊരു സാധ്യതയാണ് സ്റ്റീൽ അതിന്റെ ഡക്റ്റിലിറ്റിയും ശക്തിയും നഷ്ടപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ് എന്താണ് സംഭവിക്കുന്നത് ഹൈഡ്രജൻ അല്ലെങ്കിൽ മീഥെയ്ൻ വാതകത്തിന്റെ ആന്തരിക മർദ്ദത്തിന്റെ ഫലമായുണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ ഡക്റ്റിലിറ്റിയും ശക്തിയും നഷ്ടപ്പെടുത്തുന്നു ഇവ എവിടെയാണ് രൂപം കൊള്ളുന്നത് വീണ്ടും ഗ്രേൻ അതിർത്തികളെ ബാധിക്കുന്നു എസ്സിസിയിൽ വ്യത്യസ്തമായത് ഗ്രേൻ അതിരുകളെ വിവിധ സംവിധാനങ്ങളാൽ ബാധിക്കുന്നു എന്നതാണ് ആക്ടീവ് പാത്ത് ഡിസൊലൂഷൻലിൽ പ്രസിപ്പിറ്റേഷൻ കാരണം ഇത് ബാധിക്കപ്പെടുന്നു ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ്ലിൽ ഹൈഡ്രജന്റെ ആന്തരിക മർദ്ദം കാരണം രൂപം കൊള്ളുന്ന ചെറിയ വിള്ളലുകൾ കാണാം ഈ ഹൈഡ്രജൻ എവിടെ നിന്ന് വരുന്നു തുരുമ്പിക്കൽ പോലുള്ള വിനാശകരമായ പ്രതിപ്രവർത്തനങ്ങളാൽ ഇത് ഉൽപാദിപ്പിക്കപ്പെടാം ഇത് വളരെ സാധാരണ സ്ഥലമാണ് കാഥോഡിക് പരിരക്ഷയും ഇലക്ട്രോപ്ലേറ്റിംഗും സാധാരണഗതിയിൽ നശീകരണം തടയുന്നതിനാണ് നിങ്ങൾ ചെയ്യുന്നു അവയ്ക്ക് ദോഷകരമായ ഫലമുണ്ട് വൈദ്യുതി ഉൽപാദനത്തിനായി ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അവയെ പരിപാലിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായി ഓക്സിജൻ നീക്കം ചെയ്യുന്നതിനായി റിയാക്ടർ കൂളന്റിൽ ഹൈഡ്രജൻ ചേർക്കുന്നു ഓക്സിജൻ നീക്കംചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നു

നമുക്ക് അത് ഉപയോഗിക്കുന്നതിനാൽ ഒരു ആനുകൂല്യവും ഒരു പോരായ്മയും ലഭിക്കുന്നു രണ്ടും എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു ഒന്ന് എല്ലായ്പ്പോഴും നല്ലതോ അല്ലെങ്കിൽ എപ്പോഴും മോശമായതോ എന്നില്ല നമുക്ക് എല്ലായ്പ്പോഴും ഇവ രണ്ടും ചേർന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ചെറിയ അളവിൽ ഹൈഡ്രജൻ പോലും ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ്നു കാരണമാകും നമുക്ക് പ്രശ്നങ്ങൾ നൽകുന്നതിന് വളരെ ഉയർന്ന അളവിലുള്ള ഹൈഡ്രജൻ വാതകം ആവശ്യമാണെന്നില്ലചെറിയ അളവിലുള്ള അംശങ്ങൾ എംബ്രിറ്റ്മെന്റ്നു കാരണമാകും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫെറിറ്റിക് ഇരുമ്പുകൾ ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ്നു കൂടുതൽ സാധ്യതയുണ്ട് മറുവശത്ത് ഓസ്റ്റെനിറ്റിക് അലോയ്കൾ ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ് ഇൽ നിന്ന് പ്രതിരോധശേഷിയുള്ളതായി കണക്കാക്കപ്പെടുന്നു വാസ്തവത്തിൽ ഇതുപോലുള്ള ഒരു നിരീക്ഷണം പ്രയോജനകരമാണ് കാരണം നിങ്ങൾക്ക് വിനാശകരമായ അന്തരീക്ഷം ഉണ്ടെന്ന് അറിയാമെങ്കിൽ ആക്ടീവ് പാത്ത് ഡിസൊലൂഷൻ വഴി വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടർന്ന് സ്റ്റീൽ ഇൻറെ ഉചിതമായ ഗുണനിലവാരം ഉപയോഗിക്കാം മറുവശത്ത് നമുക്ക് പ്രധാനമായും ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ് ഉണ്ടാകാൻ പോകുകയാണെങ്കിൽ ഓസ്റ്റെനിറ്റിക് സ്റ്റീലുകൾക്കായി പോകുക അതിനാൽ നിങ്ങളുടെ ഘടനയ്ക്ക് ഉചിതമായ ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് അത്തരം പ്രശ്നങ്ങളെ മറികടക്കാനോ കുറയ്ക്കാനോ നമുക്ക് കഴിയും ലിസ്റ്റുചെയ്ത പോയിന്റുകൾ എഴുതിയെടുക്കാൻ സമയം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ഹൈഡ്രജൻ പുറത്തു നിന്ന് വരുന്നതല്ല ഓക്സിജൻ നീക്കം ചെയ്യുന്നതിനായി റിയാക്റ്റർ കൂളന്റിൽ ചേർത്തത്അല്ലെങ്കിൽ തുരുമ്പെടുക്കൽ അല്ലെങ്കിൽ കാഥോഡിക് സംരക്ഷണം ഇതൊക്കെ മൂലമുള്ള വിനാശകരമായ പ്രതികരണങ്ങൾ കാരണമാകാം ഫിലിം ഇൻഡ്യൂസ്ഡ് ക്ലീവേജ് ഫിലിം ഇൻഡ്യൂസ്ഡ് ക്ലീവേജ് ആണ് എസ്സിസിക്ക് വികസിക്കാൻ കഴിയുന്ന മറ്റൊരു മാർഗം ഇതിൽ ബ്രിട്ടിൽ ഫിലിമിൽ വികസിക്കുന്ന ഒരു വിള്ളലിന് ഒരു ഡക്ടൈൽ വസ്തുവിൽ കേറാൻ കഴിയുകയും എന്നാൽ വിള്ളൽ മൂർച്ച നഷ്ടപ്പെടുന്നതിനാൽ അത് നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് രൂപഭേദം കാരണം സംഭവിക്കുന്ന ഒരു വിള്ളൽ മൂർച്ച നഷ്ടപ്പെടുന്നത് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഗുണം ചെയ്യും നിരവധി സംരക്ഷണ കോട്ടിംഗ് കൊറോഷൻ അന്തരീക്ഷം തടയാൻ നിങ്ങൾ ഇടുന്നു ഈ സംരക്ഷണ കോട്ടിംഗുകൾ പൊതുവെ ബ്രിട്ടിൽ ആണ് വിള്ളൽ ഉപരിതലത്തിൽ നിന്ന് ആരംഭിച്ച് ഉള്ളിലേക്ക് കയറുന്നു എന്ത് സംഭവിക്കും നമുക്ക് ഒരു വിള്ളൽ ഉണ്ട് നമുക്ക് ഒരു ബ്രിട്ടിൽ ഫിലിം രൂപപ്പെടുത്തുന്നു ബ്രിട്ടിൽ ഫിലിം കൊറോഷന്റെ ഉൽപ്പന്നമാണെങ്കിൽ മൂർച്ചയില്ലാത്ത വിള്ളൽ ടിപ്പിൽ ബ്രിട്ടിൽ കോട്ട് രൂപം കൊള്ളാം ഒപ്പം വിള്ളൽ കാരണം പ്രവർത്തനത്തിൽ വിള്ളൽ വളരാം

എഞ്ചിനീയറിംഗിന്റെ വിജയം എല്ലായ്പ്പോഴും പരാജയങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയും പരാജയത്തിന്റെ കാരണം തിരിച്ചറിയുകയും ഭാവിയിൽ അത്തരം പരാജയങ്ങൾ തടയുന്നതിന് നിങ്ങളുടെ രൂപകൽപ്പന അല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗം പരിഷ്കരിക്കാനോ മെച്ചപ്പെടുത്താനോ ശ്രമിക്കുകയും വേണം 1985 ൽ സ്വിറ്റ്സർലൻഡിൽ ഒരു അപകടമുണ്ടായി ഒരു നീന്തൽക്കുളത്തിൽ 13 വർഷത്തെ ഉപയോഗത്തിന് ശേഷം മേൽക്കൂര ഇടിഞ്ഞു 12 പേർ കൊല്ലപ്പെട്ടു ഇത് വളരെ നല്ലതാണ് അവർ മനുഷ്യജീവിതത്തെ വിലമതിച്ചതിനാൽ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്താണെന്ന് നോക്കുന്നതിനുള്ള വെല്ലുവിളിയായി അവർ ഇതിനെ എടുക്കുന്നു അവർ പഠനം നടത്തിയപ്പോൾ ടെൻഷനിലുള്ള ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വടികളാണ് മേൽക്കൂരയെ പിന്തുണച്ചത് സൂക്ഷ്മപരിശോധനയിലൂടെ സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് കാരണം അവ പരാജയപ്പെട്ടു എന്ന് മനസ്സിലായി സ്റ്റെയിൻലെസ് സ്റ്റീലിൻറെ പൊതുവായ ധാരണ എന്താണ് നിങ്ങൾക്ക് കൊറോഷൻ അന്തരീക്ഷമുണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇടുന്നു അത് കേടാകില്ല നിങ്ങൾ മൈൽഡ് സ്റ്റീൽ ഇടുകയാണെങ്കിൽ അത് ദുർബലമാകും തുരുമ്പെടുക്കും അതിനാൽ ഒരു സാധാരണ കൊറോഷൻ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇട്ടാൽ അത് കേടാകില്ല എന്നാൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പികൾ ടെൻഷനിലായിരുന്നു അവ ലോഡുകളെ പിന്തുണയ്ക്കുന്നു അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് ഒരു ലോഡ് പ്ലസ് കൊറോഷൻ പരിതസ്ഥിതിയുടെ സംയോജനം സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് കാരണം വിള്ളൽ വളർച്ചയ്ക്ക് കാരണമായി ഇവിടെ ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതിന് വിധേയമാകുമെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾ സ്റ്റീൽന്റെ ശരിയായ വിഭാഗം എടുക്കുന്നു തുടർന്ന് നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കാനോ കുറയ്ക്കാനോ കഴിയും ഒരു നീന്തൽക്കുളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ വിനാശകരമായ അന്തരീക്ഷമാണ് നിങ്ങൾ ഇത് തിരിച്ചറിയുന്നില്ല നിങ്ങൾ എല്ലാവരും നീന്തൽ ആസ്വദിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാം താപനില ഉപ പൂജ്യത്തിലെത്തുന്നതിനാൽ അവർക്ക് രോഗം തടയാൻ നീന്തൽക്കുളങ്ങൾ ചൂടാക്കേണ്ടതുണ്ട് അവർ വെള്ളത്തിൽ ക്ലോറിൻ ചേർക്കുകയും ചെയ്യുന്നു ഇത് കോറോഷന് വളരെ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഘടനാപരമായ വിശകലന വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡോർ നീന്തൽക്കുളങ്ങളുടെ അന്തരീക്ഷം ഒരു കെട്ടിട പരിതസ്ഥിതിയിൽ കണ്ടെത്തുന്ന ഏറ്റവും വിനാശകരമായ അന്തരീക്ഷമാണ് ആദ്യമായി നമ്മൾ തിരിച്ചറിയണം അത്തരം സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകാം നമുക്ക് ഒരു നീന്തൽക്കുളത്തിൽ ഉള്ള ഏതെങ്കിലും ഘടന കൈകാര്യം ചെയ്യാൻ പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടതുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച നിരവധി നീന്തൽക്കുളം കൈവഴി ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടു അതിൽ ലോഡ് ഉണ്ടാവുന്നില്ല അവ നമുക്ക് പിടി നൽകാനാണ് നീന്തൽക്കുളത്തിൽ നിന്ന് കയറി പുറത്തുവരിക അതിന് ഒന്നും സംഭവിക്കില്ല നമുക്ക് ഒരു മേൽക്കൂര ഉണ്ടെങ്കിൽ അത് ലോഡിനെ പിന്തുണയ്ക്കുകയും വിനാശകരമായ അന്തരീക്ഷവും ഉണ്ടെങ്കിൽ ഇത് പരാജയത്തിന് കാരണമാകും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അണുവിമുക്തമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്ലോറിൻ അടങ്ങിയ സംയുക്തങ്ങൾ പൂൾ അന്തരീക്ഷം വഴി പൂളിൽ നിന്ന് വിദൂര പ്രതലങ്ങളിലേക്ക് മാറാം സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡുകൾ പിന്തുണയ്ക്കുന്ന മേൽക്കൂരയുള്ളപ്പോൾ സംഭവിച്ചത് അതാണ് അതിനാൽ ക്ലോറിൻ അടങ്ങിയ സംയുക്തങ്ങൾക്ക് വിധേയമായി വളരെയധികം നശിപ്പിക്കുന്ന ഒരു ഫിലിം നിർമ്മിക്കാൻ കഴിയും ഇത് ഫിലിം ഇൻഡ്യൂസ്ഡ് ക്ലീവേജിലൂടെ എസ്സിസിയിലേക്ക് നയിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂൾ വാട്ടർ അല്ലെങ്കിൽ പൂൾസൈഡ് ഉപകരണങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന സ്റ്റാൻഡേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രേഡുകൾ ലോഡ് ബെയറിംഗ് ഘടകങ്ങൾക്ക് അനുയോജ്യമല്ലായിരിക്കാം ഒരു വസ്തുവിനെ ശേഷിക്കപുറം അതിനെ ചൂഷണം ചെയ്യരുത് ദ്രവിക്കലിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ചിലതരം ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാം ലോഡ് വഹിക്കുന്ന നീന്തൽക്കുളത്തിൽ ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിനായി പോകരുത് ഒന്നുകിൽ നിങ്ങൾ അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് വിനാശകരമായ അന്തരീക്ഷത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണ കവചം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കണം കൂടാതെ സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനോ ഉള്ള മാർഗ്ഗങ്ങൾ എന്താണെന്നും നമ്മൾ കാണും നിങ്ങൾ കണ്ടെത്തുന്നത് ഇതാണ് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് തടയാൻ ഉപയോഗിക്കാവുന്ന രീതികൾ എന്തൊക്കെയാണ്

ആദ്യപടി പരിസ്ഥിതിയോടൊപ്പം പോകാൻ ഉചിതമായ ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ ഘട്ടം വിള്ളലിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാസ ഇനങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ് ഇവയെല്ലാം ചെയ്യാവുന്നവയാണ് മൂന്നാമത്തെ ഘട്ടം ആക്ടീവ് പാത്ത് ഡിസൊലൂഷൻലിന്റെ കാര്യത്തിൽ നാം ഇതിനകം കണ്ടതാണ് ടെൻസൈൽ സ്ട്രെസ് വിള്ളൽ വളരുന്നതിനുള്ള ശരിയായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു നിങ്ങൾ ഉൽപാദന പ്രക്രിയയും ടെൻസൈൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനുള്ള രൂപകൽപ്പനയും കോറോഷനുള്ള സാധ്യതകളും നോക്കുമ്പോൾ സ്ട്രെസ് ഉം കോറോഷൻ ഉം കൂടിച്ചേർന്ന് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിലേക്ക് നയിക്കും അതിനാൽ നിങ്ങൾ രണ്ടും അഭിസംബോധന ചെയ്യുന്നു ആദ്യത്തേതിൽ നിങ്ങൾ ഉചിതമായ മെറ്റീരിയലുകൾ നോക്കി രണ്ടാമത്തേത് വിള്ളലിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാസ ഇനങ്ങളാണ് മൂന്നാമത്തേത് നിങ്ങളുടെ രൂപകൽപ്പന ഘടനയിൽ ടെൻസൈൽ സ്ട്രെസ്ൻറെ നിലനിൽപ്പ് കുറയ്ക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ നിങ്ങൾ നോക്കുന്നു ഇത് വളരെ പ്രധാനമാണ് ഇവയെല്ലാം ഉപയോഗിച്ച് ആനുകാലിക പരിശോധനയ്ക്കും പ്രതിരോധ അറ്റകുറ്റപ്പണികൾക്കും പോകുക ഇത് വളരെ പ്രധാനമാണ് കേടുപാടുകൾ തീർക്കുന്ന ഡിസൈൻ സമീപനത്തിനായി നിങ്ങൾ പോകുന്ന നിമിഷം നിങ്ങൾ ആനുകാലിക പരിശോധന നടത്തണം അതിൽ നിന്ന് രക്ഷയില്ല അവ ഒന്നിച്ച് പോകുന്നു

ക്രീപ്പ് വിള്ളൽ വളർച്ചയുടെ അടുത്ത മോഡലിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്താണ് ക്രീപ്പ് ഇത് ഒരു സമയത്തെയും താപനിലയെയും ആശ്രയിക്കുന്ന ഒരു രൂപഭേദം ആണ് ഇത് ഒരു മെറ്റീരിയൽ നീണ്ട ഈ കാലയളവിൽ ലോഡിന് വിധേയമാകുമ്പോൾ സംഭവിക്കുന്നു ക്രീപ്പ് വിശദീകരിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന പൊതുവായ ഉദാഹരണങ്ങളിലൊന്ന് റോഡിൽ ടാർ സ്ഥാപിച്ചിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു അത് സൂക്ഷിച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ നിന്ന് തുളുമ്പുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ അത് വ്യാപിക്കും പ്രത്യക്ഷമായ ബാഹ്യ ലോഡ് ഇല്ലാതെ അത് സാവധാനം നീങ്ങും ഇത് നിങ്ങൾ റൂം താപനിലയിൽ കാണും ഉയർന്ന പ്രവർത്തന താപനിലയിൽ ലോഹങ്ങളുടെ കാര്യത്തിലും സമാനമായ ഒരു പ്രതിഭാസം സംഭവിക്കുന്നു മെറ്റീരിയൽ ക്രീപ്പ് ചെയ്യുകയാണെങ്കിൽ ലോഡ് സ്ഥിരമായി നിന്നാൽ പോലും വിപുലീകരണം വർദ്ധിക്കുന്നത് തുടരും അതാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ടാറിൻറെ കാര്യത്തിൽ കണ്ടു ഉയർന്ന താപനിലയിലുള്ള ലോഹങ്ങളുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നു ഒരു ക്രീപ്പ് ക്രാക്ക് എങ്ങനെ വളരുന്നു മൈക്രോസ്ട്രക്ചറൽ ഇൻഹോമോജെനിറ്റി മൂലം ശൂന്യത അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടാവുകയും വളരുകയും ഒരുമിച്ച് ചേർന്ന് വിള്ളലുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഒരു ക്രീപ്പ് വളരുന്ന രീതി വ്യത്യസ്തമാണ് നിങ്ങളുടെ സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് വളർച്ചയുടെ രീതി വ്യത്യസ്തമാണ് അതുപോലെ ഫാറ്റിഗ് വിള്ളലിന്റെ വളർച്ച വ്യത്യസ്തമാണ് പ്രായോഗികമായി എന്താണ് നിരീക്ഷിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ആളുകൾ വിശകലനം ചെയ്യുകയും മോഡലുകൾ രൂപപ്പെടുത്തുകയും ചെയ്തു അതിനാൽ ക്രീപ്പിന്റെ കാര്യത്തിൽ ഇത് പ്രധാനമായും മൈക്രോസ്ട്രക്ചറൽ ഇൻഹോമോജെനിറ്റികളിലെ ശൂന്യതകളോ ദ്വാരങ്ങളോ ഉണ്ടാവുന്നത് മൂലമാണ് അവ വളരുകയും വിള്ളലുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു ശാരീരിക പ്രക്രിയ വ്യത്യസ്തമാണ് പല ഉദാഹരണങ്ങളിലും സാധാരണയായി ഒരു വളർച്ച ഉപരിതലത്തിൽനിന്ന് മുന്നേറുന്നതായി നിങ്ങൾക്ക് കാണാം ഇത് വളരെ സാധാരണമായ കാര്യമാണ് ഒരു വസ്തു ഉണ്ടാക്കിയതിനു ശേഷം അതിനു ഉപരിതലത്തിൽ നമ്മൾ മുദ്രണം ചെയ്യുന്നു അതും വിള്ളൽ വളരുന്നതിനുള്ള ഒരു സ്ഥലമായി മാറിയേക്കാം അതിനാൽ നമുക്ക് ഉപരിതലത്തിൽ നിന്ന് വളർന്ന വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ കൊറോഷൻ അന്തരീക്ഷം കൂടുതൽ വേഗത്തിലാകും അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് വിള്ളൽ ഉപരിതലത്തിൽ നിന്ന് പുറപ്പെടുന്നു ഒപ്പം കൊറോഷൻ മൂലം ഘടനയുടെ ആയുസ്സിനെ കൂടുതൽ ബാധിക്കുന്നു

ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തന താപനില വളരെ പ്രധാനമാണ് കൂടാതെ നമുക്ക് പ്രവർത്തന അവസ്ഥയുടെ മറ്റ് പല വശങ്ങളും ക്രീപ്പ്ന് കാരണമാവും അതിനാൽ നിങ്ങൾ ഓപ്പറേറ്റിംഗ് താപനില വച്ചിരിക്കുന്ന സമയം ലോഡിംഗ് ആവൃത്തി ലോഡിംഗിന്റെ തരം വ്യാപ്തി മെക്കാനിക്കൽ ഗുണവിശേഷതകൾ ഘടകത്തിന്റെ മൈക്രോസ്ട്രക്ചർ എന്നിവ നോക്കണം അതിനാൽ സ്വാധീനിക്കുന്ന നിരവധി പാരാമീറ്ററുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ ഇവയിൽ ചിലത് ബുദ്ധിപരമായി അഭിസംബോധന ചെയ്യുന്നതിലൂടെ ക്രീപ്പ് വളർച്ച കുറയ്ക്കുന്നതിന് ഒരു സാധ്യതയും നൽകുന്നു ക്രീപ്പ് ക്രാക്ക് വളരുന്ന പ്രക്രിയയെന്താണ് എന്ന് മനസ്സിലാക്കുന്നതോടെ നിങ്ങൾ അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഇതുവരെ നമ്മൾ ഫാറ്റിഗ് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് ക്രീപ്പ് എന്നിവ വേറെ വേറെ കണ്ടു പക്ഷേ പ്രായോഗികമായി ഇവയുടെ സംയോജനം നിങ്ങൾ കണ്ടെത്തും അവ ഒറ്റയ്ക്ക് നിലനിൽക്കില്ല ഇപ്പോൾ കോറോഷൻ ഫാറ്റിഗ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നു ഫാറ്റിഗ്ൻറെയും എസ്സിസിയുടെയും സംയോജിത പ്രവർത്തനമാണ് പരാജയം എങ്കിൽ അത് കോറോഷൻ ഫാറ്റിഗ് എന്നറിയപ്പെടുന്നു കോറോഷൻ ഫാറ്റിഗ് പല പ്രായോഗിക കേസുകളിലും എസ്സിസി ഫാറ്റിഗ് കൊറോഷൻ ഫാറ്റിഗ് എന്നിവയുടെ സംയോജനം കാണുന്നു അവ പരാജയത്തിന് കാരണമാകും നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അത്തരമൊരു കോമ്പിനേഷൻ എങ്ങനെ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും ഒരു വിമാനത്തിൻറെ കാര്യം എടുക്കുക പ്രസിപ്പിറ്റേഷൻ കാരണം ഒരു നിശ്ചല വിമാനത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാം ഇവിടെ സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് കാരണം വിള്ളൽ വളരുന്നു പിന്നെ എന്ത് സംഭവിക്കും നിങ്ങൾ വിമാനം ടാർമാക്കിൽ നീക്കുന്നു അതിനാൽ നമുക്ക് ലോഡിംഗ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് ഇത് കൊറോഷൻ ഫാറ്റിഗ്നു കാരണമാകുന്നു കൂടാതെ ക്രമരഹിതമായ വൈബ്രേഷൻ പഠനങ്ങളിൽ ലോഡുകളുടെ ഏറ്റക്കുറച്ചിലുകൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഭൂപ്രദേശം എപ്രകാരമാണ് ക്രമരഹിതമായ ലോഡിംഗ് എങ്ങനെ നടക്കുന്നു തുടങ്ങിയവയൊക്കെ അവർ നോക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് അവർ ലോഡിംഗ് ഏറ്റക്കുറച്ചിലുകൾ പഠിക്കുന്നു നമ്മൾ ഇവിടെ നോക്കുന്നത് ഒരു വിള്ളലിന്റെ നിലനിൽപ്പിനൊപ്പം ലോഡിംഗ് ഏറ്റക്കുറച്ചിലുകളുടെ സംയോജനമാണ് ഇത് കൊറോഷൻ ഫാറ്റിഗ് ലേക്ക് നയിക്കും എന്ത് സംഭവിക്കും വിമാനം വായുവിലേക്ക് പറക്കുന്നു ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ ആംബിയന്റ് ബാഹ്യ താപനില മൈനസ് 40 ഡിഗ്രി സെന്റിഗ്രേഡിനേക്കാൾ കുറവാണ് ഇവിടെ കൊറോഷൻ പ്രായോഗികമായി നിഷ്ക്രിയമാണ് ഫാറ്റിഗ് ആണ് വിമാനത്തിൻറെ പ്രധാന പരാജയ മോഡ് ഇത് വളരെ നല്ല ഉദാഹരണമാണ് മഴ കാരണം സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് നടക്കുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തുന്നു തുടർന്ന് ടാർമാക്കിൽ ലോഡ് ചുമത്തുന്നത് കാരണം വിമാനത്തിൽ ലോഡ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ കോറോഷൻ ഫാറ്റിഗ്ൻറെ തുടക്കവും പിന്നീട് വിമാനത്തിൽ തുടരുന്ന ഫാറ്റിഗ് വിള്ളൽ വളർച്ചയും നിങ്ങൾ കാണുന്നു ലിക്വിഡ് മെറ്റൽ എംബ്രിട്ടിൽമെൻറ് മറ്റൊരു വിള്ളൽ വളർച്ച സംവിധാനമാണ് ലിക്വിഡ് മെറ്റൽ എംബ്രിട്ടിൽമെൻറ് മെർക്കുറി സിങ്ക് ലെഡ് കാഡ്മിയം തുടങ്ങിയ ചില ദ്രാവക ലോഹങ്ങളുടെ സാന്നിധ്യത്തിൽ ലോഹങ്ങളുടെ വിനാശകരമായ തകർച്ചയാണ് ഇത് ഹൈഡ്രജൻ എംബ്രിറ്റ്മെന്റ്ൻറെ കാര്യത്തിൽ നാം കണ്ടതുപോലെ വളരെ ചെറിയ അളവിൽ ഹൈഡ്രജൻ പ്രശ്നമുണ്ടാക്കുമെന്ന് നമ്മൾ കണ്ടു ഇവിടെയും നിങ്ങൾ കാണുന്നത് വളരെ ചെറിയ അളവിൽ ലിക്വിഡ് മെറ്റൽ എംബ്രിറ്റ്മെന്റ് ന് കാരണമാകും അവ എവിടെ നിന്ന് വരുന്നു ബ്രേസിംഗ് സോൾഡറിങ് വെൽഡിംഗ് ഹീറ്റ് ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ ഹോട്ട് വർക്കിംഗ് പോലുള്ള നിർമ്മാണ പ്രക്രിയകൾ കാരണം അവ ഉണ്ടാകാം ഇവ അടിസ്ഥാന ഉൽപാദന പ്രക്രിയകളാണ് ഇതുകൊണ്ടാണ് ഒരു ഘടനയുടെ പ്രകടനം നിർമ്മാണ രീതിശാസ്ത്രത്തെയും രൂപകൽപ്പനയെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ സംയോജിത നിർമ്മാണത്തിനും രൂപകൽപ്പനയ്ക്കും പോകുന്നത് ഇത് ഘടനയുടെ അന്തിമ അളവുകൾ മാത്രമല്ല അത് എങ്ങനെ നിർവഹിക്കാൻ പോകുന്നു എങ്ങനെയാണ് ഘടന കെട്ടിച്ചമച്ചത് അതിന് പ്രവർത്തിച്ച നിർമ്മാണ പ്രക്രിയകൾ എന്തൊക്കെയാണ് ഘടനയുടെ പ്രകടനത്തെയും സ്വാധീനിക്കുന്നു നിങ്ങൾ നിർമ്മാണ പ്രശ്നങ്ങളിലും തുല്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എസ്സിസിയുമായി സാമ്യം ഉള്ളതുപോലെ എസ്സിസി ആരംഭിക്കുന്നതിന് പ്രാദേശികവൽക്കരിച്ച ഒരു കൊറോഷൻ ആവശ്യമാണ് LME യുടെ കാര്യത്തിൽ പ്രാദേശിക രാസ പ്രവർത്തനം സാധാരണയായി ഒരു മുന്നോടിയാണ് അതിനാൽ സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിന്റെ കാര്യത്തിൽ കോറോഷൻ അത് വേഗത്തിലാക്കുന്നു ലിക്വിഡ് മെറ്റൽ എംബ്രിറ്റ്മെന്റ്ന്റെ കാര്യത്തിൽ ഒരു രാസ പ്രവർത്തനം ഒരു മുന്നോടിയാണ് LME യുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് കുറഞ്ഞ വേഗത്തിൽ നിന്ന് ദ്രുതഗതിയിലുള്ള വിള്ളൽ വളർച്ചയിലേക്കുള്ള മാറ്റം ഇത് കാണിക്കുന്നു LME വളർച്ചയെ വേഗത്തിലാക്കുന്നു എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട സൂചനയാണിത് ഇത് എങ്ങനെ കുറയ്ക്കാം ശരിയായ സർഫസ് ട്രീറ്റ്മെൻറ്ലൂടെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും ഇത് ചെയ്യുന്നതിലൂടെ LMEയോടുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതിനാൽ ഈ പ്രക്രിയകൾ നോക്കുന്നതിലൂടെ നമുക്ക് വിള്ളൽ വളർച്ച കുറയ്ക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചു ഇത് വളരെ പ്രധാനമാണ് ഫാറ്റിഗ്ന്റെ കാര്യത്തിൽ നമുക്ക് വളരെ മിനുസമാർന്ന ഉപരിതലമുണ്ടെങ്കിൽ നിങ്ങൾ ഫാറ്റിഗിൽ വിള്ളൽ ആരംഭിക്കുന്നത് വൈകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണമാണ് ആളുകൾ ഫാറ്റിഗിലും സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിലും അനുയോജ്യമായ മെറ്റീരിയൽ തിരഞ്ഞെടുത്ത് കോറോഷൻ അന്തരീക്ഷം കുറയ്ക്കുന്നു LMEയുടെ കാര്യത്തിൽ അനുയോജ്യമായ സർഫസ് ട്രീറ്റ്മെൻറ് നടത്തുക അത് മൂലം വിള്ളൽ വളർച്ച കുറയ്ക്കുന്നതിനോ കാലതാമസം വരുത്തുന്നതിനോ നമുക്ക് ഒരു വഴി ഉണ്ടാകും നിങ്ങൾ ഒരു സർഫസ് ട്രീറ്റ്മെൻറ് നടത്തുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉപരിതല പാളിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് വിള്ളലിന് കാരണമാകുമെന്നതിനാൽ ഇത് വളരെ ജാഗ്രതയോടെ നടത്തണം നിങ്ങൾ ഒരു ഉപരിതല കോട്ടിംഗ് ഇടുമ്പോഴെല്ലാം ഉപരിതല കോട്ടിംഗിൽ ഒരു ചെറിയ വിള്ളൽ പോലും സമയപരിധിക്കുള്ളിൽ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അതിൽ നിന്ന് നാശമുണ്ടാക്കാം അതിനാൽ കോട്ടിംഗ് നടത്തിയശേഷം നിങ്ങൾ അത് പരിശോധിക്കുകയും ഇടയ്ക്കിടെ ആ പാച്ചുകൾ നന്നാക്കുകയും വേണം ഇത് വളരെ പ്രധാനമാണ് ഫ്രാക്ചർ മെക്കാനിസംസ് ഇപ്പോൾ നമ്മൾ ഫ്രാക്ചർ സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നു രണ്ട് പ്രധാന ഫ്രാക്ചർ സംവിധാനങ്ങളുണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടു ഒന്ന് ബ്രിട്ടിൽ ഫ്രാക്ചർ മറ്റൊന്ന് ഡക്റ്റൈൽ ഫ്രാക്ചർ ബ്രിട്ടിൽ ഫ്രാക്ചർനെ ക്ലീവേജ് എന്നും ഡക്റ്റൈൽ ഫ്രാക്ചർ റപ്പ്ചർ എന്നും അറിയപ്പെടുന്നു ഫ്രാക്ചർ മെക്കാനിസങ്ങൾ ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണും നിങ്ങൾ ഒരു വേർതിരിവ് കാണിക്കേണ്ടതുണ്ട് ഇവ ക്രാക്ക് വളർച്ചയ്ക്ക് വിപരീതമായി എങ്ങനെ സംഭവിക്കും എന്നിരുന്നാലും നമുക്ക് രണ്ട് ഫ്രാക്ചർ മെക്കാനിസങ്ങളുണ്ട് ഭൂരിഭാഗം പ്രവർത്തന പരാജയങ്ങളും സംഭവിക്കുന്നത് ഡക്റ്റൈൽ ഫ്രാക്ചർ മൂലമാണ് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്രാദേശിക പ്രദേശത്ത് പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കും ഘടന മൊത്തത്തിൽ ഇപ്പോഴും ബ്രിട്ടിൽ രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേ നിങ്ങൾ പോയി ഫ്രാക്ചർ ഉണ്ടാവുന്ന രീതികൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷ്മമായ രീതിയിൽ ബ്രിട്ടിൽ ഡക്റ്റൈൽ എന്നിങ്ങനെ വേർതിരിക്കുന്നു നമ്മൾ മൈക്രോസ്കോപ്പിക് തലത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും മാക്രോസ്കോപ്പിക് തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും വിശദീകരിക്കേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ സൂക്ഷ്മതലത്തിലേക്ക് നോക്കുകയാണ് മൈക്രോസ്കോപ്പിക് തലത്തിൽ ഫ്രാക്ചർനെ ബ്രിട്ടിൽ ആയും ഡക്റ്റൈൽ ആയും തരംതിരിക്കാം എന്നാൽ രണ്ടിലും മാക്രോസ്കോപ്പിക് വീക്ഷണകോണിൽ നിന്ന് ഘടന ബ്രിട്ടിൽ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് വിള്ളൽ വളർച്ചയ്ക്ക് വിപരീതമായി ഫ്രാക്ചർ വളരെ വേഗതയുള്ള പ്രക്രിയയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഫ്രാക്ചർകളും വളരെ വേഗതയുള്ളതാണ് ക്ലീവേജ് ഫ്രാക്ചർ സെക്കൻഡിൽ 1660 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു ഡക്റ്റൈൽ ഫ്രാക്ചർ സെക്കൻഡിൽ 500 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു സെക്കൻഡിൽ 100 മീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു റേസിംഗ് കാർ നോക്കുകയാണെങ്കിൽഅതുതന്നെ വളരെ ഉയർന്ന വേഗത ആണ് ഒരു വിള്ളൽ സെക്കൻഡിൽ 500 മീറ്ററിൽ സഞ്ചരിക്കുന്നു അത് വളരെ വേഗതയുള്ളതാണ് വളരെ വിശദമായി മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് ബ്രിട്ടിൽ രീതിയിൽ പരാജയപ്പെടുന്നതായി നിങ്ങൾ കാണുന്നു മറ്റൊന്ന് ഡക്റ്റൈൽ ഫ്രാക്ചർ ആണ് നമ്മൾ മെക്കാനിസങ്ങളും പരിശോധിക്കും ആ സംവിധാനങ്ങൾ ഒരു വിശദീകരണം നൽകും എന്തുകൊണ്ടാണ് ഒരു ക്ലീവേജ് ഫ്രാക്ചർ വളരെ വേഗതയുള്ളത് എന്തുകൊണ്ടാണ് ഒരു ഡക്റ്റൈൽ ഫ്രാക്ചർ താരതമ്യേന മന്ദഗതിയിലാകുന്നത് എന്നാൽ നിങ്ങൾ ഓർമിക്കേണ്ടതുണ്ട് ഇവ രണ്ടും ക്രാക്ക് വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വേഗതയുള്ള പ്രക്രിയകളാണ് ബ്രിട്ടിൽ ഫ്രാക്ചർ ക്ലീവേജ് ഫ്രാക്ചർ എന്താണ് ക്ലീവേജിന്റെ കാര്യത്തിൽ അത് ആറ്റോമിക് പ്ലെയിനിനെ വിഭജിക്കുന്നു ഇവിടെ വിള്ളൽ ടിപ്പിന് സമീപമുള്ള ഗ്രേൻ വലുതാക്കിയ ചിത്രം നിങ്ങൾക്കുണ്ട് ഇത് വളരെ വലുതാക്കിയ ചിത്രമാണെന്നും ഇവിടെ ഒരു കറുത്ത വരയായി കാണിക്കുന്നത് ആറ്റോമിക് പ്ലെയിനിനെ വേർതിരിക്കുന്നതാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം ഓരോന്നിനും ഒരു ക്രിസ്റ്റൽ ഉണ്ട് അവയുടെ പ്ലെയിൻ ഗ്രേനിൽ നിന്ന് ഗ്രേനിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ വിഭജിക്കുന്ന പ്ലെയിൻ ഗ്രേനിൽ നിന്ന് ഗ്രേനിലേക്ക് വ്യത്യാസപ്പെടും അവ വ്യത്യസ്തമായി ഓറിയന്റഡ് ആകുന്നു ഇത് ഒരു വശത്തെ ഫ്രാക്ചർ ഉണ്ടാക്കുന്നു നിങ്ങൾ അതിന്റെ ഭംഗിയുള്ള രേഖാചിത്രം തയ്യാറാക്കുക ഓരോ തവണയും ഒരു പൂർണ്ണ ഗ്രേനിലൂടെ വിള്ളൽ വീഴുന്നു അതുകൊണ്ടാണ് ഇത് വളരെ വേഗതയുള്ളത് വിള്ളൽ മുന്നേറ്റം ഗ്രേനിൽ നിന്ന് ഗ്രേനിലേക്ക് ആണ് നിങ്ങൾ ഒരു ഗ്രേനിൽ നിന്ന് മറ്റൊരു ഗ്രേനിലേക്ക് നീങ്ങുമ്പോൾ V പ്ലെയിൻ ഓറിയന്റേഷൻ വ്യത്യസ്തമാണ് നിങ്ങൾ ഇപ്പോൾ ആനിമേഷൻ നിരീക്ഷിച്ചാൽ നിങ്ങൾ അത് കണ്ടെത്തും അത് വളരെ വേഗത്തിൽ പോകുന്നു നമുക്ക് ഇതുപോലെ ഒരു വിള്ളൽ വളർന്നു ഒരു മാക്രോസ്കോപ്പിക് തലത്തിൽ വിള്ളൽ നേരെ വളർന്നതായി നിങ്ങൾ കണ്ടെത്തും സൂക്ഷ്മതലത്തിൽ ഈ വ്യതിയാനങ്ങളെല്ലാം നിങ്ങൾ കാണും ഫ്രാക്ചർ പ്രതലത്തിന്റെ ചില സ്വഭാവ സവിശേഷതകളുണ്ട് വശങ്ങൾ പരന്നതാണ് വീഴുന്ന പ്രകാശത്തിന്റെ നല്ല പ്രതിഫലനങ്ങൾ ആണത് അതിനാൽ ബ്രിട്ടിൽ ഫ്രാക്ചർന്റെ കാര്യത്തിൽ ഉപരിതലം വളരെ തിളക്കമുള്ളതായി നിങ്ങൾ കണ്ടെത്തും വാസ്തവത്തിൽ നിങ്ങൾ പെർസ്പെക്സ് എടുക്കുകയാണെങ്കിൽ അത് പരാജയപ്പെടുകയാണെങ്കിൽ അത് ബ്രിട്ടിൽ സ്വഭാവമായിരിക്കും നമുക്ക് വളരെ മിനുക്കിയ പ്രതലങ്ങൾ ഉണ്ടാകും മറുവശത്ത് നിങ്ങൾ അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രാക്ചർ ഉണ്ടാകും തുടക്കത്തിൽ ഉപരിതലങ്ങൾ തിളക്കമുള്ളതാണെങ്കിലും ലോഹങ്ങളുടെ കാര്യത്തിൽ ഓക്സിഡേഷൻ മൂലം ഉപരിതലങ്ങൾ മങ്ങിയതായിത്തീരുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് വിള്ളൽ ഗ്രേനിൽ നിന്ന് ഗ്രേനിലൂടെ മുന്നോട്ട് പോകുന്നു ദുർബലമായ പ്ലെയിൻ വ്യത്യസ്തമാണ് അതിനാൽ നിങ്ങൾ ഒരു തരത്തിലുള്ള വിള്ളൽ കണ്ടെത്തുന്നു അതാണ് അതിന്റെ സ്വഭാവം അത് ഗ്രേനിൽ നിന്ന് ഗ്രേനിലൂടെ ചലിപ്പിക്കുന്നതിനാൽ പ്രക്രിയ വളരെ വേഗതയുള്ളതാണ് ഇത്തരത്തിലുള്ള ഫ്രാക്ചർകൾക്ക് നമുക്ക് രണ്ട് വർഗ്ഗീകരണവുമുണ്ട് ഒന്ന് ഒരു ട്രാൻസ് ഗ്രാനുലർ ആണ് അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് മാത്രമല്ല മിക്ക ലോഹങ്ങളും ട്രാൻസ്ഗ്രാനുലർ ഫ്രാക്ചർ മൂലം പരാജയപ്പെടുന്നുവെന്നും അത് പറയുന്നു

നമുക്ക് ഗ്രേനുള്ള മോഡലാണിത് കൂടാതെ നമുക്ക് ഓരോ ഗ്രേനിലും വ്യത്യസ്ത ദിശകളിലേക്ക് വിള്ളലുകൾ ഉണ്ട് ഇതുപോലെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസ്ഗ്രാനുലർ എന്ന് വിളിക്കുന്നു നിങ്ങൾ ഇതിൻറെ ഒരു ചിത്രം തയ്യാറാക്കുക പ്രധാനം നമുക്ക് ഈ വിള്ളലുകൾ ഗ്രേനിലുടനീളം മുറിക്കുന്നു മിക്ക ലോഹങ്ങളിലും കാണപ്പെടുന്ന സാധാരണ പരാജയമാണിത് നമുക്ക് മറ്റൊരു പ്രക്രിയയുണ്ട് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിന്റെ കാര്യത്തിൽ ഗ്രേനിക്കൊപ്പം വിള്ളൽ വളരുന്നതായി നമ്മൾ ഇതിനകം കണ്ടു അതിനെ ഇന്റർഗ്രാനുലർ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നു ലോഹങ്ങളുടെ കാര്യത്തിൽ മോണോടോണിക് ലോഡിംഗിന് കീഴിലുള്ള നിയമത്തേക്കാൾ ഇന്റർഗ്രാനുലർ ഫ്രാക്ചർ ഒരു അപവാദമാണ് മോണോടോണിക് ലോഡിംഗിന് കീഴിൽ ഇത് ഒരു അപവാദം മാത്രമാണ് എന്ന് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് ഇന്റർഗ്രാനുലറിന്റെ കാര്യത്തിൽ ഗ്രേനിന്റെ അതിർത്തിയിൽ ഫ്രാക്ചർ സംഭവിക്കുന്നു ഇത് സാധാരണയായി വിരുദ്ധ അന്തരീക്ഷവും ഉയർന്ന താപനിലയും പ്രോത്സാഹിപ്പിക്കുന്നു ഇവയിൽ ചിലത് വിള്ളൽ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ നാം ഇതിനകം കണ്ടു ഫ്രാക്ചർന്റെ കാര്യത്തിലും വിരുദ്ധ അന്തരീക്ഷവും ഉയർന്ന താപനിലയും ഇന്റർഗ്രാനുലർ തരത്തിലുള്ള ഫ്രാക്ചർകൾ ഉണ്ടാക്കുന്നു

എന്താണ് ഡക്റ്റൈൽ റപ്പ്ചർ ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയലിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് അവയിൽ ധാരാളം രണ്ടാം ഘട്ട കണികകൾ അടങ്ങിയിരിക്കുന്നു ഇവയെല്ലാം മെറ്റലർജിയിൽ നിന്ന് മനസ്സിലാക്കുന്നവയാണ് നിങ്ങൾ ഇത് പഠിച്ചില്ലെങ്കിൽ എങ്ങനെ അലോയിംഗ് നടത്തുന്നു ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത് മനസ്സിലാക്കാനും വിവിധതരം കണങ്ങളെ തിരിച്ചറിയാനും കഴിയില്ല ഡക്റ്റൈൽ റപ്പ്ചർ ഉണ്ടാക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെ ആണെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു നമുക്ക് 1 മുതൽ 20 മൈക്രോമീറ്റർ വരെ വലുപ്പമുള്ള വലിയ കണങ്ങൾ ഉണ്ടാകാം ഞാൻ വലിയ കണങ്ങൾ എന്ന് പറയുമ്പോൾ അവ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ ദൃശ്യമാണ് അവ എന്തൊക്കെയാണ് അവ സാധാരണയായി അലോയിംഗ് ഘടകങ്ങളാണ് മെറ്റീരിയലിന്റെ ശക്തിക്ക് അത്യന്താപേക്ഷിതമല്ല പക്ഷേ അവ നിലവിലുണ്ട് ഇത് ഒഴിവാക്കാനാവില്ല അപ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് കണങ്ങളുണ്ട് വലുപ്പ പരിധി 50 മുതൽ 500 നാനോമീറ്റർ വരെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ അവ ദൃശ്യമാണ് വലിയ കണങ്ങൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ കാണാം ഇന്റർമീഡിയറ്റ് കണങ്ങൾ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ മാത്രമേ കാണാനാകൂ അവ അലോയിംഗ് മൂലകങ്ങളുടെ സംയുക്തങ്ങളാണ് അവ ശക്തിക്ക് വളരെ അത്യാവശ്യമാണ് നമുക്ക് അവ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാലാണ് നിങ്ങൾ അലോയിംഗ് ഘടകങ്ങൾ ചേർക്കുന്നത് പ്രക്രിയയിൽ നമുക്ക് വലിയ കണങ്ങളുണ്ട് ആത്യന്തികമായി നമുക്ക് ഇത് ആവശ്യമാണ് എനിക്ക് വലുതും ഇന്റർമീഡിയറ്റും ഉള്ളപ്പോൾ എനിക്ക് ചെറിയ കണങ്ങളും ഉണ്ടായിരിക്കണം 5 മുതൽ 50 വരെ നാനോമീറ്ററുള്ള പ്രിസിപിറ്റേറ്റ് കണങ്ങളായി അവയെ തരംതിരിക്കുന്നു വളരെ വളരെ ചെറുത് ഹീറ്റ് ട്രീറ്റ്മെൻറ് ഉം ഏജിങ് ഉം വഴി അവ വികസിപ്പിച്ചെടുക്കുന്നു അവയുടെ പങ്ക് എന്താണ് ആവശ്യമായ യീൽഡ് നേടാൻ അവ സഹായിക്കുന്നു മെറ്റലർജിസ്റ്റുകളുടെ ഡൊമെയ്നിൽ നമുക്ക് ഭൌതിക ശാസ്ത്രജ്ഞരെ അറിയാം അവർ ഹൈ സ്ട്രെങ്ത് അലോയ്കൾ വികസിപ്പിക്കുകയും ഹൈ സ്ട്രെങ്ത് അലോയ്കളുടെയും ഉയർന്ന ടഫ്നെസ്ന്റെയും സംയോജനവും ആഗ്രഹിക്കുന്നു ഏത് തരത്തിലുള്ള പ്രക്രിയകളാണ് ഇത് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് അവർ കണ്ടെത്തേണ്ടതുണ്ട് അവർ അനുയോജ്യമായ ഹീറ്റ് ട്രീറ്റ്മെൻറ് ഉം ഏജിങ് ഉം കണ്ടെത്തുകയും ആവശ്യമായ യീൽഡ് ശക്തി നേടാൻ സഹായിക്കുകയും ചെയ്യും നമ്മൾ ലോഡുകൾ ചെയ്യുമ്പോൾ ഈ കണികകൾ എങ്ങനെ പ്രവർത്തിക്കും ക്രാക്ക് ടിപ്പിന് സമീപം നമുക്ക് പ്ലാസ്റ്റിക് രൂപഭേദം വരുത്താൻ കഴിയുന്ന സ്ട്രെസ്ൻറെ ഉയർന്ന മൂല്യങ്ങളുണ്ട് ഈ പ്ലാസ്റ്റിക് രൂപഭേദത്തോട് വലിയ ഇന്റർമീഡിയറ്റ് പ്രിസിപൈറ്റ് കണികകൾ എങ്ങനെ പ്രതികരിക്കും Ductile fracture ഡക്റ്റൈൽ ഫ്രാക്ചർ വലിയ കണങ്ങൾ ബ്രിട്ടിൽ ആണ് ചുറ്റുമുള്ള മാട്രിക്സിന്റെ പ്ലാസ്റ്റിക് രൂപഭേദം വരുത്താൻ അവയ്ക്ക് കഴിയില്ല ഇത് കണക്കിലെടുത്ത് ശൂന്യത രൂപപ്പെടുന്നു വലിയ കണികകൾ ഒരു പങ്കു വഹിക്കുന്ന രീതി അവ ഡക്റ്റൈൽ ഫ്രാക്ചർന്റെ സമയവും സ്ഥാനവും നിർണ്ണയിക്കുന്നു ഡക്റ്റൈൽ ഫ്രാക്ചർ പ്രക്രിയയിൽ അവർ ഒരു പങ്കു വഹിക്കുന്നില്ല അവർ സമയവും സ്ഥാനവും നിർണ്ണയിക്കുന്നു അപ്പോൾ ഇന്റർമീഡിയറ്റ് കണങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇന്റർമീഡിയറ്റ് കണികകൾ മാട്രിക്സുമായി യോജിപ്പ് അയയുകയും ചെറിയ ശൂന്യത രൂപം കൊള്ളുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഫ്രാക്ചർ ഇന്റർമീഡിയറ്റ് കണങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുന്നു നിങ്ങൾക്കു ഈ ചെറിയ ശൂന്യതയുണ്ട് ഈ ശൂന്യത സ്ലിപ്പിലൂടെ വളരുന്നു അതുകൊണ്ടാണ് നമ്മൾ സ്ലിപ്പിൽ സമയം ചെലവഴിച്ചത് നമുക്ക് ഷിയർ ലിപ്പ് ഉണ്ടെന്ന് ഒരു ടെൻഷൻ പരിശോധനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ശൂന്യത സ്ലിപ്പിലൂടെ വളരുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നു ഒപ്പം ശൂന്യതയ്ക്കിടയിലുള്ള വസ്തുക്കൾ ഞെരുങ്ങുന്നു ഇതിനെ മൈക്രോ നെക്കിംഗ് എന്ന് വിളിക്കുന്നു നെക്കിംഗ് ഒരു മൈക്രോ സ്കെയിലിൽ നടക്കുന്നു തത്ഫലമായുണ്ടാകുന്ന മൊത്തം നീട്ടൽ ചെറുതാണ് നമ്മൾ ഇപ്പോൾ മൈക്രോ സ്കെയിൽ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു കാരണം നമ്മൾ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഉപരിതലം പരുക്കൻ ആയിരിക്കുന്നത് എന്തുകൊണ്ട് അത് മന്ദഗതിയിലാണ് എന്നിങ്ങനെ പോകുന്നു മൈക്രോ സ്കെയിൽ നോക്കുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ മൈക്രോ സ്കെയിലിൽ ശൂന്യത രൂപം കൊള്ളുന്നു ശൂന്യത വളരുന്നു അവർക്കിടയിലേക്ക് വസ്തുക്കൾ ഞെരിക്കുന്നു മൈക്രോ നെക്കിംഗ് വിള്ളൽ എന്നിവയിലൂടെ ശൂന്യത വളരുന്നു

ഇപ്പോൾ ഡക്റ്റൈൽ ഫ്രാക്ചർന്റെ പ്രതിഭാസത്തെ വിശദീകരിച്ച് ആനിമേഷൻ നോക്കാം വിള്ളൽ ടിപ്പിലെ ഗണ്യമായ പ്ലാസ്റ്റിക് രൂപഭേദം മൂലമാണ് ഡക്റ്റൈൽ ഫ്രാക്ചർ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഇതിനകം കണ്ടു ആദ്യം വലിയ കണങ്ങൾ അയയുകയോ പൊട്ടുകയോ ചെയ്താൽ വിള്ളൽ ടിപ്പിന് സമീപം വ്യാപകമായി വിടവുള്ള ദ്വാരങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് ഒരേസമയം ആനിമേഷൻ നോക്കാനാകും പക്ഷേ നിങ്ങൾ സമയം ചെലവഴിക്കുകയും പിന്നീട് ആനിമേഷൻ നോക്കുകയും ചെയ്യാം ഇപ്പോൾ നമുക്ക് ഘട്ടങ്ങൾ നോക്കാം വലിയ കണികകൾ അയഞ്ഞതോ പൊട്ടിയതിന്നോ ശേഷം ചെറിയ കണങ്ങളുടെ എണ്ണത്തിൽ ദ്വാരങ്ങൾ രൂപം കൊള്ളുന്നു എന്താണ് സംഭവിക്കുന്നത് ഈ ദ്വാരങ്ങൾ അല്ലെങ്കിൽ ശൂന്യത ഫ്രാക്ചർ പൂർത്തിയാക്കാൻ യോജിക്കുന്നു നിങ്ങൾ ഇവിടെ കാണുന്നത് ദ്വാരങ്ങൾ യോജിക്കുകയും വിള്ളൽ ഒരു സിഗ്സാഗ് രീതിയിൽ മൈക്രോസ്കോപ്പിക് തലത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്നു ഒരു മാക്രോസ്കോപ്പിക് തലത്തിൽ മുന കാണിക്കുന്നതുപോലെ ഇത് നേരെ പോകുന്നു ക്രമക്കേട് കാരണം ഫ്രാക്ചർ ഉണ്ടായ ഉപരിതലത്തിൽ പ്രകാശം പരന്ന് മങ്ങിയ ചാരനിറം കാണപ്പെടുന്നു ഇപ്പോൾ നമുക്ക് ആനിമേഷനെ അടുത്തറിയാൻ കഴിയും ഇത് അതിന്റെ അവസാന ഭാഗം കാണിക്കുന്നു അവിടെ മൈക്രോ നെക്കിംഗ് കാരണം ശൂന്യത യോജിക്കുന്നു നമുക്ക് വിള്ളൽ പ്രചരണം ഉണ്ട് പ്രക്രിയ ഇവിടെ ആരംഭിക്കുന്നു തുടക്കത്തിൽ വലിയ കണികകൾ തകരുന്നു തുടർന്ന് നമുക്ക് നിരവധി ദ്വാരങ്ങൾ രൂപം കൊള്ളുന്നു അവ മൈക്രോ നെക്കിംഗ് ഉപയോഗിച്ച് പരാജയപ്പെടുകയും വിള്ളൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു നമുക്ക് ഈ മൈക്രോ നെക്കിംഗിന് ശേഷം ക്രാക്ക് പ്രചാരണമുണ്ടാകുമ്പോൾ കണികകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ ഉപരിതലം മിനുസമാർന്നതല്ലെന്നും അതിന് താഴ്വരകളും കുന്നുകളും ഉണ്ടെന്നും നിങ്ങൾ കാണുന്നു ഒരു സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉചിതമായ മാഗ്നിഫിക്കേഷനിൽ നമുക്ക് അത് കാണാൻ കഴിയും പുസ്തകങ്ങളും നോക്കുക കൂടുതൽ വിവരങ്ങൾ നേടുക എന്ന ശീലം നിങ്ങൾ വളർത്തിയെടുക്കണം നിങ്ങൾ പോയി ബ്രൂക്കിന്റെ പുസ്തകം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അലുമിനിയം അലോയ്യിൽ വലിയ കണങ്ങൾ പൊട്ടുന്നതായി കാണിക്കുന്ന മൈക്രോഗ്രാഫുകൾ ഉണ്ടാകും തുടർന്ന് ഉപരിതലത്തിന്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഫോട്ടോ സ്കാൻ ചെയ്യുകയും താഴ്വരകളും കുന്നുകളും കാണിക്കുകയും ചെയ്യുന്നു ഇത് ഡക്റ്റൈൽ ഫ്രാക്ചർ ഇൽ ഉപരിതലം പരുക്കനായി കാണുന്നതിൻറെ കാരണം വിശദീകരിക്കുന്നു നമ്മൾ വീണ്ടും ആനിമേഷൻ നോക്കും ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളെ മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് ഒരുതരം വ്യക്തത നൽകും അതിനാൽ വലിയ കണികകൾ തകരുന്നു അതിനുശേഷം ഇന്റർമീഡിയറ്റ് കണികകൾ നീക്കം ചെയ്യപ്പെടുകയും ദ്വാരങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം മൈക്രോ നെക്കിംഗ് ഈ ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ ഫാറ്റിഗ് വിള്ളൽ വളർച്ചാ മാതൃകയെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ പറഞ്ഞു പിന്നീട് നമ്മൾ സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് സംഭവിക്കാവുന്ന വിവിധ വഴികൾ പരിശോധിച്ചു ആക്ടീവ് പാത്ത് ഡിസൊലൂഷൻ തുടർന്ന് ഹൈഡ്രജൻ എംബ്രിട്ടിൽറ്റ്മെന്റ് എന്നിവ നമ്മൾ പരിശോധിച്ചു ഒടുവിൽ ഫിലിം ഇൻഡ്യൂസ്ഡ് ക്ലീവേജ് പിന്നീട് നമ്മൾ മറ്റൊരു ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസത്തിലേക്ക് നീങ്ങി അതായത് ക്രീപ്പ് ഒരു യഥാർത്ഥ ഘടനയിൽ ഇവയിൽ പലതും നമുക്ക് ഉണ്ടാകും ഒരു വിമാനത്തിന്റെ ഉദാഹരണത്തിന് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് വഴി വിള്ളൽ ആരംഭിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു വിമാനം കോറോഷൻ ഫാറ്റിഗ്ൻറെ ഫലമായി ഇത് തുടരുന്നതായും നമ്മൾ കണ്ടു യഥാർത്ഥ വിമാനത്തിൽ ഒരു ഫാറ്റിഗ് സംവിധാനം വഴി വിള്ളൽ വ്യാപിക്കുന്നു പല ഘടനകൾക്കും ഈ വിള്ളൽ വളർച്ചാ സംവിധാനങ്ങളുടെ സംയോജനമുണ്ടാകും അവസാനമായി ലിക്വിഡ് മെറ്റൽ എംബ്രിട്ടിൽറ്റ്മെന്റ് മൂലമുണ്ടാകുന്ന വിള്ളൽ വളർച്ചാ സംവിധാനം എന്താണെന്നും നമ്മൾ പരിശോധിച്ചു ഫ്രാക്ചർ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ബ്രിട്ടിൽ ഫ്രാക്ചർ ഡക്റ്റൈൽ ഫ്രാക്ചർ എന്നിവ നമ്മൾ പരിശോധിച്ചു

ചുരുക്കത്തിൽ ഈ അധ്യായത്തിൽ എന്താണ് വിള്ളൽ വളർച്ചയും ഫ്രാക്ചർ സംവിധാനങ്ങളും എന്ന് വിശദമായി പരിശോധിച്ചു നമുക്ക് കാണാൻ കഴിയുന്ന ഫാറ്റിഗ് വിള്ളൽ വളർച്ചാ സംവിധാനം ഓരോ ചക്രത്തിനും വിള്ളൽ ചെറിയ അളവിൽ വളരുന്നു എന്ന് ഈ സ്ലൈഡ് സംഗ്രഹിക്കുന്നു ഇതിനു വിപരീതമായി ഒരു ഫ്രാക്ചർന്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ ബ്രിട്ടിൽ ഫ്രാക്ചർ എടുത്തിട്ടുണ്ട് വിള്ളൽ വളരെ വേഗത്തിൽ നീങ്ങുന്നു അത് ഗ്രേനിൽ നിന്ന് ഗ്രേനിലേക്ക് വളരുന്നു നമുക്ക് ഇവിടെ ഡക്റ്റൈൽ ഫ്രാക്ചർ ചിത്രീകരിച്ചിട്ടുണ്ട് ഡക്റ്റൈൽ ഫ്രാക്ചറിൽ ഉൾപ്പെടുന്ന പ്രക്രിയകൾ വ്യത്യസ്തമാണ് ഒരർത്ഥത്തിൽ ബ്രിട്ടിൽ ഫ്രാക്ചർമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സാവധാനത്തിൽ നീങ്ങുന്നു പക്ഷേ നമ്മൾ അതിനെ വിള്ളൽ വളർച്ചയുമായി താരതമ്യം ചെയ്താൽ രണ്ട് ഫ്രാക്ചർ സംവിധാനങ്ങളും അതിവേഗ പ്രക്രിയകളാണ്